ഡിസ്പെഴ്സിവ് മെറ്റീരിയലുകളെ FDTD യിലേക്ക് എങ്ങനെ സംയോജിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടരാം ഇതുവരെ നമ്മൾ ചെയ്തത് എന്തെന്നാൽ നമ്മൾ ഡീബൈ മോഡൽ കൊണ്ട് തുടങ്ങി എനിക്ക് ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത് ഓരോ Yee സെല്ലിനും അതിന്റെതായ എപ്സിലോൺ മൂല്യം ഉണ്ട് എന്നതാണ് ഇത് ഓർമിക്കണം അത് സംഭരിച്ചിരിക്കുന്ന വിശദമായ ഡാറ്റാ സ്ട്രക്ച്ചർ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഉദാഹരണമായി നിങ്ങൾ സംഭരിക്കേണ്ട നമ്പറുകൾ എന്തൊക്കെയാണ് ഓരോ Yee സെല്ലിനും സംഭരിക്കേണ്ടതുണ്ട് ഇവ 3 ആണ് ഇത് 3 പരാമീറ്റർ മോഡൽ ആണ് നമ്മൾ ചെയ്തത് എന്തെന്നാൽ നമ്മൾ ഈ ഡീബൈ മോഡൽ എടുത്തു ഇതിന്റെ ഇൻവെർസ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു D ക്ക് വേണ്ടിയുള്ള റിലേഷനിലേക്ക് സബ്സ്റ്റിട്യൂട്ട് ചെയ്തു ടൈം ഡോമൈനിൽ D കിട്ടാൻ വേണ്ടി ഒരു തവണ ടൈം ഡോമൈനിൽ D കിട്ടിക്കഴിഞ്ഞാൽഎനിക്ക് ഫൈനൈറ്റ് ഡിഫറെൻസസ് എടുക്കാൻ കഴിയും എന്നിട്ട് ഇവിടെ മാക്സ്വെൽസ് Maxwellsഉപയോഗിക്കും നമ്മൾ ഇത് ചെയ്യാൻ ശ്രമിച്ചതിന്റെ മുഴുവൻ കാരണം നമുക്ക് എങ്ങനെ എങ്കിലും മുഴുവൻ ഫീൽഡ് ഹിസ്റ്ററി യും സംഭരിക്കുന്നത് ഓഴിവാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ എനിക്കുള്ള എക്സ്പ്രഷൻ ഈ എക്സ്പ്രഷൻ അത് ഒഴിവാക്കുന്നില്ല കാരണംകഴിഞ്ഞ എല്ലാ ടൈം ഇൻസ്റ്റൻസസിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോഴും സംഭരിചിരിക്കുന്നു അതിനാൽ ഈ എക്സ്പ്രഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ എന്താണ് പിന്തുടരുന്നത്ഒരു അൽപം ആൾജിബ്രാ ഈ കണക്കുകൾ മുഴുവൻ ഒരല്പം എളുപ്പമാക്കാൻ ഞാൻ ഒരു പുതിയ സഹായകമായ വാരിയബിൾ നിർവചിക്കാൻ പോവുകയാണ് നിങ്ങൾ കാണുന്ന ഇവിടെ ഉള്ള ഈ മുഴുവൻ സമ്മേഷൻ ഞാൻ ഇതിനെ പുതിയ ഒരു വാരിയബിൾ കൊണ്ട് വിളിക്കാൻ പോവുകയാണ് സൌകര്യത്തിന് വേണ്ടി മാത്രം ഒരു അപ്ഡേറ്റ് ഇക്വേഷനിൽ ഇനി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എനിക്ക് എന്താണ് വേണ്ടത് എല്ലാത്തിന്റെയും അടിസ്ഥാനത്തിൽ ന് വേണ്ടിയുള്ള റിലേഷൻ വേണം അതാണ് FDTD യുടെ തത്വശാസ്ത്രം അതിനാൽ ഈ എനിക്ക് D യിൽ താല്പര്യം ഇല്ല എനിക്ക് E യും H ഉം തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത് അത്കൊണ്ട് ഞാൻ മാക്സ്വെൽസ് ഇക്വേഷൻ maxwells equation ഉപയോഗിക്കുന്നു ഞാൻ എന്തിനെ കൊണ്ട് ഇത് റീപ്ലേസ് ചെയ്യും ഇത് ആണ് ഇത് ഉം ഉം കൊണ്ട് റീപ്ലേസ് ആവും അതിനാൽ ഇത് നോട് സമം ആവും ഇത് വെറും വ്യത്യാസം ആണ് ഈ മുഴുവൻ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും എന്താണ് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് എനിക്ക് ന് വേണ്ടി കഴിഞ്ഞ എല്ലാ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നെറ്റിക് ഫീൽഡിന്റെയും അടിസ്ഥാനത്തിൽ ഉള്ള ഒരു റിലേഷൻ വേണം എനിക്ക് അത് ചെയ്യാൻ കഴിയുമോ എത്ര സ്ഥലങ്ങളിൽപ്രത്യക്ഷപ്പെടും 123 അഥവാ ഇനിയും ഒറ്റൊരു തവണ കാരണം m സമ്മേഷൻ ഒരിക്കലും ൽ എത്തില്ല അതിനാൽ എനിക്ക് നെ ഒരു സൈഡിൽ കൊണ്ട് വരാം ബാക്കിയെല്ലാം വലത് വശത്തേക്ക് മാറ്റാം ഇത് വളരെ ലളിതമായ കൃത്രിമത്വമാണ് എനിക്ക് നെ RHS ലേക്ക് മാറ്റും നിങ്ങൾക്ക് കിട്ടുന്ന അവസാന എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതാം ഞാൻ എന്തിനാണ് കൊണ്ട് വന്നത് എന്നതിന്റെ ഒരു കാരണം നിങ്ങൾക്ക് കാണാം ഈ എക്സ്പ്രഷൻ കുറച്ചു ഒതുക്കമുള്ളതായി കാണാൻ അല്ലെങ്കിൽ അത് കാണാൻ വളരെ വൃത്തികേടായിരിക്കും FDTD യുടെ തത്വശാസ്ത്രം വർത്തമാന കാലത്തേക്കും ടൈം സ്റ്റെപ് ലേക്കും എത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് ഇത് കോഡിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല ഇവിടെ ഉള്ള ഈ ടെർമ് എനിക്ക് ബുദ്ധിമുട്ടുള്ളതാണ് ഇത് ന് എനിക്ക് വേണ്ടാത്ത കഴിഞ്ഞ എല്ലാ ഇലക്ട്രിക് ഫീൽഡിന്റെയും ആകെ തുക ഉണ്ട് കാര്യങ്ങൾ എങ്ങനെ കൂടുതൽ ലളിതമാക്കാം എന്നറിയാൻ നമുക്ക് ആൾജിബ്രായിൽ കുറച്ചൂടെ ശ്രമിക്കാം നമുക്ക് ഉള്ളത് ഇനിയും ആവശ്യമാണോ എന്ന് നോക്കാം ൽ ഉണ്ട് ഇവിടെ ഉള്ള ഈ ടെർമിനെ ഞാൻ ഇങ്ങനെ വിളിക്കാൻ പോവുകയാണ് ഇവിടെ ഒരുപാട് ലളിതവൽക്കരണം നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇതിനെ എന്ന് വിളിക്കും എന്ത്കൊണ്ട് അതിനാൽ ഈ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതും നമ്മുടെ എക്സ്പ്രഷൻ ഞാൻ നേരത്തെ എഴുതിയത് ഇങ്ങനെയാണ് ഇത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഇന്റഗ്രൽ ആണെന്ന് തോന്നുന്നുണ്ടോ നോക്കുമ്പോൾ സങ്കീർണ്ണമായതല്ല ഇത് വെറും എക്സ്പോണെൻഷിയൽ ആണ് അതിനാൽ എനിക്ക് ഇന്റെഗ്രേറ്റ് ചെയ്യാൻ കഴിയും എത്ര ടെർമുകൾ സംഭവിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥി നാല് നാല് ടെർമുകൾ ഓരോ എക്സ്പോണെൻഷിയലും ഞാൻ ഇന്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റുകൾ എനിക്ക് 2 ടെർമുകൾ തരും ഒന്ന് പൊതുവായിട്ടുണ്ടാവും വിദ്യാർത്ഥി അതേ m1 അല്ലെ അതിനാൽ ഈ ഇന്റഗ്രൽ മൂല്യനിർണയം ചെയ്യുമ്പോൾ ഞാൻ 3 ടെർമുകൾ പ്രതീക്ഷിക്കണം എന്താണ് സംഭവിക്കുന്നത് എന്ന് മുൻകൂട്ടി കാണാൻ വേണ്ടി മാത്രം ഈ എക്സ്പ്രഷൻ ഞാൻ ഇങ്ങനെ എഴുതാം ഞാൻ എല്ലാ 4 ടെർമുകളെയും സംയോജിപ്പിച്ചു 3 ടെർമുകൾ ആക്കി ഇതാണ് ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഈ എക്സ്പ്രഷനിൽ എവിടെയാണ് m പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് എനിക്ക് ഒരു പാട് ടെർമുകൾ ഉണ്ട് എന്നാൽ m പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ ഉള്ള ഒരു ടെർമിൽ മാത്രമാണ് ഇതാണ് m പ്രത്യക്ഷപ്പെടുന്ന ഒരേ ഒരു സ്ഥലം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് നോക്കിയാൽ ഞാൻ ലേക്ക് നോക്കിയാൽ m ടെർമ് പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ മാത്രമാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക എന്നാൽ എന്ത് സംഭവിക്കും അവിടെ m1 മാത്രമേ ഉണ്ടാവൂ ഈ എന്തിനോടാണ് സാമ്യം ഉള്ളത് ഇത് എന്ത് തരത്തിലുള്ള സീരീസ് നെ പോലെ ആണ് ഉള്ളത്ജോമെട്രിക് പ്രോഗ്രഷൻ ഓരോ ടെർമും കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് ടെർമിനോട് ഗുണിക്കുമ്പോൾ ആണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു ജോമെട്രിക് പ്രോഗ്രഷനോട് സാമ്യം ഉണ്ട് ഇത് നമ്മളെ ഒരു പാട് സഹായിക്കും കാരണം GP യുടെ കോണ്സിക്യൂട്ടീവ് ടെർമുകളുടെ റേഷിയോ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് അറിയാം m ൽ നിന്നും സ്വാതന്ത്രമായി അതിനാൽ ഞാൻ ലേക്ക് നോക്കിയാൽ ഈ റേഷിയോ എന്താവും

അതേ m അവിടെ ഉണ്ടാവരുത് ഇപ്പോൾ എനിക്ക് ന് വേണ്ടിയുള്ള എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം ഇവിടെയുള്ള ഈ നിരീക്ഷണം എനിക്ക് ഉപകാരപ്രധമാക്കണം ഇത് വരെ ഞാൻ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ സമ്മേഷനിൽ എനിക്ക് ഒരു പുതിയ സമ്മേഷൻ വാരിയബിൾ കൊണ്ട് വരാം ന് വേണ്ടിയുള്ള ഈ സമ്മേഷനിൽ എന്റെ m 0 യിൽ നിന്നും എന്തിലേക്കോ പോകുന്നുഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന രീതി ഇപ്പോൾ m 1 ൽ നിന്നും എന്തിലേക്കോ പോവുന്നു എനിക്ക് അത് 0 യിലേക്ക് തിരികെ കൊണ്ട് വരണമെങ്കിൽഒരു പുതിയ വാരിയബിൾ കൊണ്ട് വരേണ്ടതുണ്ട് നമുക്ക് അതിനെ എന്ന് വിളിക്കാം ഈ ടെർമ് സമ്മേഷന്റെ പുറത്തേക്ക് എടുക്കാം ഇത് p യെ ആശ്രയിക്കാത്തതിനാൽ ഇതിനെ പുറത്തേക്ക് എടുക്കാം ഇനി അവസാനത്തെ ഘട്ടം ആയിഎനിക്ക് പുറകിലേക്ക് പോകാം പുറകിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എനിക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അപ്പോൾ എന്റെ എക്സ്പ്രഷൻ എന്താവും ആർക്കെങ്കിലും വലതുവശത്തുള്ള ഈ എക്സ്പ്രഷൻ പ്രത്യേകിച്ച് ഈ എക്സ്പ്രഷൻ എന്ത് പോലെ ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഈ എക്സ്പ്രഷനും ഈ എക്സ്പ്രഷനും നോക്കുക എന്തെങ്കിലും സമാനത ഉണ്ടോ ഇത് ആണ് നമ്മൾ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലായോ എന്താണ് ഇതിനാധാരം ജോമെട്രിക് പ്രോഗ്രഷൻ ഇത് എന്നെ ഒരു ടെർമ് മാറ്റിമുമ്പത്തെ ടെർമ് പോലെയാക്കാൻ അനുവദിക്കുന്നു നമുക്ക് ഈ അവസാനത്തെ എക്സ്പ്രഷൻ ഒന്നൂടെ എഴുതാം എന്നിട്ട് നമുക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ നോക്കാം ഈ എല്ലാ ആൾജിബ്രാ യും ചെയ്തിട്ട് എന്താണ് നമുക്ക് കിട്ടിയത് ഞാൻ എക്സ്പ്രഷൻ നോക്കിയാൽ മൂല്യനിർണ്ണായം ചെയ്യാൻ എനിക്ക് വേണം എനിക്ക് എല്ലാ കഴിഞ്ഞ ഇലക്ട്രിക് ഫീൽഡും ആവശ്യമുണ്ട് ഈ എക്സ്പ്രഷൻ നോക്കിയാൽ അതിൽ എന്തോ വ്യത്യാസം വന്നതായി കാണാം ഒരു ഉം ഇത് ഒരു മെച്ചപ്പെടുത്തൽ ആണോ അതേ അതിനാൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല എല്ലാ ഇലക്ട്രിക് ഫീൽഡും സംഭരിക്കേണ്ട ആവശ്യം ഇല്ല പക്ഷെ ഒരു പുതിയ വാരിയബിൾ അതായത് സംഭരിക്കേണ്ടതുണ്ട് മൂല്യ നിർണ്ണയം നടത്താൻ എനിക്ക് മാത്രം മതി ഒന്നും വേണ്ട ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് സംഭരിച്ചത് Es പിന്നെ സ്പേസ് ഗ്രിഡ്ലെയും ടൈം ഗ്രിഡ്ലെയും H ഇനി എന്താണ് ചെയ്യേണ്ടത് സ്പേസ് ടൈം ഗ്രിഡുകളിലെ E H പിന്നെ പ്സൈ എന്റെ കംപ്യൂറ്റേഷണൽ ലോഡ് ഞാൻ സംഭരിക്കേണ്ട ഒരു വാരിയബിൾ കൂടി വർദ്ധിച്ചു ഇപ്പോൾ ഞാൻ ഈ ശരിയായ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽഓരോ തവണയും പ്സൈ മൂല്യനിർണ്ണയം നടത്തണമെങ്കിൽ എനിക്ക് ഒരു പഴയ മൂല്യം വേണം ഇത് ഇലക്ട്രിക് ഫീൽഡ് അപ്ഡേറ്റ് പോലെ തന്നെയാണ് ഇപ്പോഴത്തെ E യും H ഉം കിട്ടണമെങ്കിൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നെറ്റിക് ഫീൽഡിന്റെയും ഒരു പഴയ മൂല്യം ആവശ്യമുണ്ട് അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് എന്റെ തുക ഒരു സഹായക വാരിയബിൾ കൂടി സംഭരിക്കുന്നു ഇവിടെ ഉള്ള പ്ലസ് പോയിന്റ് എന്തെന്നാൽ E ന്റെയും H ന്റെയും മുഴുവൻ ഹിസ്റ്ററി സംഭരിക്കേണ്ട ആവശ്യം ഇല്ല മൈനസ് പോയിന്റ് ഒരു പുതിയ സഹായകമായ വാരിയബിൾ അതായത് സംഭരിക്കണം എന്നതാണ് നിങ്ങൾ ഇത് ആരംഭിച്ചാൽ നിങ്ങൾക്കിവിടെ ന്റെ നിർവചനം ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് കാണാം ഉദാഹരണമായി ഇതാണ് ന് വേണ്ടിയുള്ള നിന്റെ അപ്ഡേറ്റ് ഇക്വേഷൻ എങ്ങനെ എനിക്ക് ആദ്യത്തെ സ്ഥാനത്ത് കിട്ടും എന്നാണ് ചോദ്യം എനിക്ക് പ്സൈ ആദ്യത്തെ സ്ഥാനത്ത് കിട്ടണമെങ്കിൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡും പിന്നെ ഈ എക്സ്പ്രഷൻ ഗ്രീൻ ആരോ യിൽ കിട്ടണം അത് കിട്ടിയാൽ ഞാൻ ചെയ്തു കഴിഞ്ഞു എനിക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കണം ഇതിനെ നമുക്ക് ന് വേണ്ടിയുള്ള ഇനീഷിയലൈസേഷൻ ഇക്വേഷൻ എന്ന് വിളിക്കാം ഇത് പിന്നെ ന്റെ അപ്ഡേറ്റ് ഇക്വേഷൻ ആയി മാറും ഇതിന്റെ ഫലമായി നമ്മൾ എന്താണ് ചെയ്തത് ഒരു കോൺവല്യൂഷൻ ഇന്റെഗ്രൽ ഒരു റണ്ണിംഗ് സമ്മിലേക്ക് ചുരുക്കിയിരിക്കുന്നു ഇവിടെ എത്താൻ നമ്മൾ എന്തെങ്കിലും അപ്പ്രോക്സിമേഷൻ ചെയ്തിരുന്നോ ഇലക്ട്രിക് ഫീൽഡ് ഹിസ്റ്ററികൾ സംഭരിക്കേണ്ടത് പോലെ ഇത് കൃത്യമാണ് ഇവിടെ ഒരു അപ്രോക്സിമേഷനും നടന്നിട്ടില്ല നമ്മൾ ആകെ ചെയ്യേണ്ടത് ഒരു പുതിയ വാരിയബിളിനെ സംഭരിക്കണം അനുമാനം ഡീബൈ മോഡൽ ആണ് വേറെ തരത്തിലുള്ള റിസോനൻസസ് സാധ്യമാണ് ഉദാഹരണമായി ലോറെന്റ്സിയൻ റിസോനൻസസ് വാസ്തവത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഗ്രിഫിത്സ് റഫറൻസ്Griffiths references ലോറെന്റ്സിയൻ റിസോനൻസ് ഉണ്ടാക്കുന്നു അപ്ഡേറ്റ് ഇക്വേഷൻ കിട്ടാൻ അവക്ക് അതിന്റെതായ ആൾജിബ്രാ ഉണ്ട് ഇവിടെ നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നില്ല എങ്ങനെയാണ് അത് നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കാം അതിന് പലതരത്തിൽ ഉള്ള വ്യത്യസ്തമായ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഗവേഷണ ആവശ്യങ്ങൾക്കാണ് ഇത് വിപുലമായി ഉപയോഗിക്കുന്നത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഗൂഗിൾ ചെയ്തു നോക്കൂ ഇത് നടപ്പിലാക്കുന്ന അടിസ്ഥാന ഭാഷയിൽ ആണ് എഴുതിയിരിക്കുന്നത്അത് സാദാരണ ഉപയോഗിക്കുന്നതല്ലസ്കീം എന്ന് വിളിക്കുന്ന വിചിത്രമായ ഭാഷ യാണ് അത് സംയോജിത ഭാഷയല്ല C അഥവാ C നെ പോലെയല്ല നിങ്ങൾക്കിത് സയോജിപ്പിച്ചു പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല കുറച്ചൊക്കെ പൈതൺ നെ പോലെയാണ് ഇത് ഘട്ടം ഘട്ടം ആയാണ് പോകുന്നത്വ്യാഖ്യാനിക്കാവുന്നതാണ് അവയ്ക്ക് C ഇന്റർഫേസും ഉണ്ട് സ്പീഡ് വേണമെങ്കിൽഈ സോഫ്റ്റ്വെയർ ഒന്ന് നോക്കുക